ആശംസകൾ മൊഡ്യൂൾ 2 യൂണിറ്റ് 17 ലേക്ക് സ്വാഗതം പ്രോജക്റ്റുകൾക്കായുള്ള എക്സിറ്റ് സർവേകൾ കഴിഞ്ഞ യൂണിറ്റിൽ ലബോറട്ടറി ഇലക്ടീവ് കോഴ്സ് എക്സിറ്റ് സർവേകളുടെ രൂപകൽപ്പനയും ഉപയോഗവും ഞങ്ങൾ മനസ്സിലാക്കി ഈ യൂണിറ്റിൽ ഞങ്ങൾ പ്രോജക്റ്റുകൾ നോക്കും ഈ യൂണിറ്റിന്റെ ഫലം "പ്രോജക്റ്റ് എക്സിറ്റ് സർവേകളുടെ രൂപകൽപ്പനയും ഉപയോഗവും മനസിലാക്കുക" എന്നതാണ് ഒരു സാധാരണ യുജി എഞ്ചിനീയറിംഗ് പാഠ്യപദ്ധതിയുടെ പ്രധാന ഘടകങ്ങളാണ് പ്രോജക്റ്റുകൾ കോൾബ് മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണാത്മക പഠന സമീപനത്തിന്റെ അടിസ്ഥാനമായി അവ മാറുന്നു ഇത് നിർദ്ദേശത്തെക്കുറിച്ചുള്ള അടുത്ത മൊഡ്യൂളിൽ ഞങ്ങൾ ചർച്ച ചെയ്യും ഇപ്പോൾ വൈവിധ്യപ്രോജക്റ്റുകൾ വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നു എന്നാൽ സാധാരണയായി പ്രോജക്റ്റുകൾ മിനി പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രധാന പ്രോജക്റ്റ് അല്ലെങ്കിൽ അവസാന വർഷ പ്രോജക്റ്റ് എന്നിവയാകാം ഒരു സാധാരണ കോഴ്സിന്റെ ഭാഗമായി മിനി പ്രോജക്റ്റ് വീണ്ടും വാഗ്ദാനം ചെയ്യാം സാധാരണയായി ഒരു അനുബന്ധ ലാബിന്റെ സ്ഥാനത്ത് എന്നാൽ ചിലപ്പോൾ ഒരു ലാബും ഒരു മിനി പ്രോജക്ടും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് മാത്രം ഒരു പ്രത്യേക കോഴ്സായി വാഗ്ദാനം ചെയ്യാം ഉദാഹരണത്തിന് 002 ന്റെ ക്രെഡിറ്റ് ഘടന ഉപയോഗിച്ച് അതിനർത്ഥം 0 തിയറി മണിക്കൂർ 0 ട്യൂട്ടോറിയൽ മണിക്കൂർ 2 ക്രെഡിറ്റുകൾക്ക് മൂല്യമുള്ള ലാബ് പക്ഷേ അതൊരു മിനി പ്രോജക്റ്റ് ആണ് ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇത് കൂടുതൽ സാധാരണമാണ് എന്നിരുന്നാലും ചില ടയർ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിരന്തരമായ ആന്തരിക വിലയിരുത്തൽ നടപ്പിലാക്കുന്ന രീതിയിൽ ഇൻസ്ട്രക്ടർമാർക്ക് ഒരു നിശ്ചിത സ്വാതന്ത്ര്യം നൽകുന്നു തുടർന്ന് ഇൻസ്ട്രക്ടർ വിദ്യാർത്ഥികൾക്ക് ഒരു മിനിപ്രോജക്റ്റിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ചെയ്യാം ഇതിന് പരിമിതമായ സാധ്യതയുണ്ട് കാരണം ഇത് ഒരു സെമസ്റ്ററിനുള്ളിലാണ് ചെയ്യുന്നത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് മറ്റ് കോഴ്സുകളും ഉണ്ട് അതിനാൽ മിനി പ്രോജക്റ്റിന് പരിമിതമായ സാധ്യതയുണ്ട് പ്രധാന പ്രോജക്റ്റ് സാധാരണയായി അവസാന സെമസ്റ്ററിലോ അല്ലെങ്കിൽ ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്ററായ അവസാന വർഷത്തിലാണ് ചെയ്യുന്നത് ഇതിന് ഗണ്യമായ ക്രെഡിറ്റ് വെയിറ്റേജ് ഉണ്ട് അതിനാൽ ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാന പ്രവർത്തനമാണ് മിക്ക സ്ഥാപനങ്ങളിലും ഇത് ഒരു പ്രധാന പ്രവർത്തനമാണ് വളരെ ചെറിയ എണ്ണം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് പ്രധാന പ്രോജക്റ്റ് ചെയ്യാനോ ചില അധിക കോഴ്സ് ജോലികൾ ചെയ്യാനോ കഴിയും പക്ഷേ അത് വളരെ അപൂർവമാണ് വലിയതോതിൽ മിക്ക സ്ഥാപനങ്ങളിലും പ്രധാന പ്രോജക്റ്റ് ഒരു കാതലായ പ്രവർത്തനമാണ് പ്രോജക്റ്റുകൾക്ക് ഇന്നത്തെ എഞ്ചിനീയറിംഗ് പാഠ്യപദ്ധതിയുടെ സാധാരണ കോഴ്സുകൾക്ക് എളുപ്പത്തിൽ അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത നിരവധി പിഒകളെ അഭിസംബോധന ചെയ്യാൻ കഴിവുണ്ട് എന്നതാണ് അവയുടെ പ്രാധാന്യം ഇന്നത്തെ പാഠ്യപദ്ധതിയിൽ വാസ്തവത്തിൽ പിഒ 6 മുതൽ പിഒ 12 വരെയുള്ള പിഒകൾ എഞ്ചിനീയറുമായും സമൂഹവുമായും ബന്ധപ്പെട്ടവ പരിസ്ഥിതിയും സുസ്ഥിരതയും ധാർമ്മികത പ്രോജക്ട് മാനേജുമെന്റ് ധനകാര്യം എന്നിവയുമായി ബന്ധപ്പെട്ടവ ഇത്തരത്തിലുള്ള എല്ലാ പിഒകളും നിലവിലുള്ള പരമ്പരാഗത കോഴ്സുകളിലൂടെ പരിഹരിക്കാൻ വളരെ പ്രയാസമാണ് പക്ഷേ ഉചിതമായ രീതിയിൽ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്താൽ ഈ പിഒകളെല്ലാം അഭിസംബോധന ചെയ്യാൻ ഒരു പ്രോജക്റ്റിന് കഴിവുണ്ട് മിനി പ്രോജക്റ്റുകൾക്ക് പരിമിതമായ വ്യാപ്തി മാത്രമേ ഉള്ളൂവെങ്കിലും പ്രധാന പ്രോജക്റ്റിന് ഈ പിഒകളെയെല്ലാം വളരെ ഫലപ്രദമായി അഭിസംബോധന ചെയ്യാൻ കഴിയും പക്ഷേ നിർദ്ദിഷ്ട പിഒകളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന പ്രോജക്റ്റിന് പോലും ഈ പിഒകളെ അഭിസംബോധന ചെയ്യേണ്ടതിന്റെ ആവശ്യകത പ്രോജക്റ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളിൽ അടങ്ങിയിരിക്കണം ഉദാഹരണത്തിന് പ്രോജക്റ്റ് നൈതിക പ്രശ്നത്തെ അഭിസംബോധന ചെയ്യണമെങ്കിൽ വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ രചനാമോഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ഉൾപ്പെടുത്തണം അതിനാൽ അതുപോലെ മറ്റേതെങ്കിലും പിഒയെ അഭിസംബോധന ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ പ്രധാന പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ അവ പരിഹരിക്കേണ്ടതാണെന്ന് മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യക്തമായിരിക്കണം പ്രോജക്റ്റ് നിരീക്ഷണവും അത്തരം പിഒകളെ അഭിസംബോധന ചെയ്യുന്നതിന്റെ പ്രശ്നം വ്യക്തമായി വിലയിരുത്തണം ജോലി ശരിക്കും ആ പിഒകളെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് നിരീക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണം അത്തരം പിഒകളുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ റുബ്രിക്സിൽ അടങ്ങിയിരിക്കണം അപ്പോൾ മാത്രമേ പ്രോജക്റ്റ് ആ പിഒകളെ അഭിസംബോധന ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയൂ മുൻകൂട്ടി വിദ്യാർത്ഥികളുമായി പതിവ് പോലെ റുബ്രിക്സ് പങ്കിടണം ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പരമ്പരാഗത കോഴ്സുകളിലൂടെ അഭിസംബോധന ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഈ പിഒകളെല്ലാം പ്രധാന പ്രോജക്റ്റ് അഭിസംബോധന ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയും മിനി പ്രോജക്റ്റുകൾക്കായുള്ള എക്സിറ്റ് സർവേ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്യ്രം ഉണ്ട് മിനി പ്രോജക്റ്റ് ഒരു സാധാരണ കോഴ്സിന്റെ ഭാഗമായി നടപ്പിലാക്കാം അല്ലെങ്കിൽ അത് ഒരു സ്വതന്ത്ര പ്രത്യേക കോഴ്സായി വാഗ്ദാനം ചെയ്യാം ഒരു സാധാരണ കോഴ്സിന്റെ ഭാഗമായി മിനി പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ എക്സിറ്റ് സർവേ ഒരു പരിധി വരെ ഒരു സാധാരണ കോഴ്സിന്റെ ലബോറട്ടറി ഘടകത്തിനായുള്ള എക്സിറ്റ് സർവേയ്ക്ക് സമാനമാണ് ഈഅർത്ഥത്തിൽ ഞങ്ങൾ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെയും ബാധകമാണ് ഉദാഹരണത്തിന് കോഴ്സിന്റെ സിഒകളോട് മിനി പ്രോജക്റ്റിന്റെ പ്രസക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും വിഭവങ്ങളുടെ ലഭ്യത നല്ല ഉപകരണങ്ങളും ഘടകങ്ങളുടെ ആവശ്യത്തിന് വിതരണവും മറ്റും മിനി പ്രോജക്റ്റ് എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ച് എക്സിറ്റ് സർവേയിൽ ചില അധിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം ഉദാഹരണത്തിന് മിനി പ്രോജക്റ്റ് ഒരു ഗ്രൂപ്പ് പ്രവർത്തനമായി നടപ്പിലാക്കുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് മിനി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം "മിനി പ്രോജക്റ്റ് ഒരു ഗ്രൂപ്പിൽ എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ സഹായിച്ചോ ഇത് ടീം വർക്കുമായി ബന്ധപ്പെട്ട ഒരു പിഒയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനും കഴിയും "വ്യക്തിഗത സംഭാവനകളുടെ വിലയിരുത്തൽ ന്യായമായതാണോ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 ഇത് ടീം വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിനി പ്രോജക്റ്റ് ഒരു പ്രത്യേക കോഴ്സായി വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ ചില അധിക പരിഗണനകൾ ചിത്രത്തിലേക്ക് വരുന്നു മിനി പ്രോജക്റ്റ് ഒരു പ്രത്യേക കോഴ്സായി വാഗ്ദാനം ചെയ്യുമ്പോൾ ഇത് സാധാരണയായി വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവപരിചയമുള്ള പഠനം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇതിന് വളരെ തീവ്രമായുള്ളതും എന്നാൽ പരിമിതവുമായ ഫോക്കസ് ഉണ്ട് ഒരു പ്രത്യേക കോഴ്സായി മിനി പ്രോജക്റ്റ് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക അനുഭവം നൽകുന്നതിന് വാഗ്ദാനം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ മിക്കപ്പോഴും അവർക്ക് ചില ഓപ്പൺ എൻഡ് പരീക്ഷണങ്ങളുണ്ട് അവ പര്യവേക്ഷണ സ്വഭാവമുള്ളവയാണ് പക്ഷേ അവയ്ക്ക് പരിമിതമായ ഫോക്കസ് ഉണ്ട് ഉദാഹരണങ്ങൾ ആകാം ഡിസൈൻ ചിന്ത ആദ്യ വർഷത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാം വർഷത്തിൽ അല്ലെങ്കിൽ ഒന്നാം വർഷത്തിൽ സാമൂഹിക സംരംഭകത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകാം ഞങ്ങൾ ആ മേഖലയിൽ ഒരു മിനി പ്രോജക്റ്റ് വാഗ്ദാനം ചെയ്തേക്കാം ഇവയെല്ലാം പ്രത്യേക കോഴ്സുകളായി വാഗ്ദാനം ചെയ്യുന്ന മിനി പ്രോജക്ടുകളാണ് മറ്റേതൊരു കോഴ്സിനെയും പോലെ അടുത്ത തവണ ഓഫർ ചെയ്യുമ്പോൾ ഒരു മിനി പ്രോജക്റ്റും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് മിനി പ്രോജക്റ്റ് ഒരു സെമസ്റ്ററിലെ ഒരു സ്വതന്ത്ര കോഴ്സായി വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അത് മറ്റേതൊരു കോഴ്സായി കണക്കാക്കാം അത് ഒരു മാർഗ്ഗമാണ് പ്രധാന പ്രോജക്റ്റിന് സമാനമായ രീതിയിൽ ഞങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും അത് മറ്റൊരു മാർഗ്ഗമാണ് നിങ്ങൾ ഇത് മറ്റേതെങ്കിലും കോഴ്സായി പരിഗണിക്കുകയാണെങ്കിൽ സിഒകൾ വികസിപ്പിക്കുക സിഒകളെ പിഒകളിലേക്കും പിഎസ്ഒകളിലേക്കും മാപ്പ് ചെയ്യുക സിഒ നേട്ടങ്ങൾക്കായി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക സിഒകളുടെ യഥാർത്ഥ നേട്ടം അളക്കുക വിടവുകളുടെ അടിസ്ഥാനത്തിൽ എക്സിറ്റ് സർവേയിൽ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിക്കുക സിഒ നേട്ടങ്ങളിലെ വിടവുകളുടെയും ഫീഡ്ബാക്ക് ഡാറ്റയുടെയും അടിസ്ഥാനത്തിൽ അടുത്ത തവണ അതേ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ പദ്ധതി മെച്ചപ്പെടുത്തലുകൾ എന്നിവ അഭികാമ്യമാണ് ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കി ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഡിസൈൻ ചിന്തയെക്കുറിച്ച് ഒരു കോഴ്സ് വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ അടുത്ത തവണ അതേ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ ഓഫർ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ഞങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അടുത്ത തവണ ഡിസൈൻ ചിന്തയിൽ മിനി പ്രോജക്റ്റ് വീണ്ടും വാഗ്ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു മിനി പ്രോജക്റ്റിന്റെ സിഒകൾ പിഒകൾ പോലെയാണ് ഉദാഹരണം ഡിസൈൻ ചിന്തയെക്കുറിച്ചുള്ള 0 0 2 മിനി പ്രോജക്റ്റ് കോഴ്സ് പരിഗണിക്കുക 0 തിയറി മണിക്കൂർ 0 ട്യൂട്ടോറിയലുകൾ മിനി പ്രോജക്റ്റിനായി നീക്കിവച്ചിരിക്കുന്ന 4 മണിക്കൂർ ലബോറട്ടറി ജോലികൾ രണ്ട് ക്രെഡിറ്റുകൾ ഒരു സിഒ ഇങ്ങനെ ആയിരിക്കാം കോഴ്സിന്റെ അവസാനം അനൌപചാരികമായി അല്ലെങ്കിൽ അർദ്ധഊപചാരികമായി ഇംഗ്ലീഷിൽ വിവരിച്ച ഉപയോക്തൃ ആവശ്യകതകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു എഞ്ചിനീയറിംഗ് പ്രശ്നം രൂപപ്പെടുത്താൻ കഴിയും അതിനാൽ ഞങ്ങൾ മിനി പ്രോജക്റ്റ് ഓർഗനൈസുചെയ്യുന്ന രീതി ഒരുപക്ഷേ ഞങ്ങൾ ഉപയോക്തൃ ആവശ്യകതകളുടെ സവിശേഷതയോടെയാണ് ആരംഭിക്കുന്നത് ആദ്യ ഘട്ടമായി പക്ഷേ അനൌപചാരികമായി അല്ലെങ്കിൽ അർദ്ധ ഊപചാരികമായി ഇംഗ്ലീഷിൽ വിദ്യാർത്ഥികൾ ഒരു നിർദ്ദിഷ്ട എഞ്ചിനീയറിംഗ് പ്രശ്നമായി ഇത് രൂപപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രശ്നപ്രസ്താവന ഔപചാരികമാക്കുക ഇപ്പോൾ ഈ സിഒ മിക്കവാറും പിഒ2 പോലെയാണ് മറ്റൊരു സിഒ ആകാം കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥികൾക്ക് ചെലവ് അടിസ്ഥാനമാക്കി ഇതര ഡിസൈൻ മാർഗങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയും മിനി പ്രോജക്റ്റ് ഓർഗനൈസു ചെയ്യുന്ന രീതി ചെലവ് അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ ഡിസൈനിനെ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് വിദ്യാർത്ഥികൾ കുറഞ്ഞത് രണ്ട് ഡിസൈൻ ബദലുകളെങ്കിലും നൽകാൻ ആവശ്യപ്പെടാം എന്നിട്ട് ചെലവ് അടിസ്ഥാനമാക്കി അവ താരതമ്യം ചെയ്യുക അതിനാൽ സിഒകളിലൊന്ന് കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥികൾക്ക് ചെലവ് അടിസ്ഥാനമാക്കി ഇതര ഡിസൈൻ മാർഗങ്ങൾ താരതമ്യം ചെയ്യാൻ ആണെങ്കിൽ അപ്പോൾ ഈ സിഒ പിഒ11 ന് വളരെ അടുത്താണ് പ്രോജക്ട് മാനേജ്മെന്റും ഫിനാൻസും അതിനാൽ അത്തരം കോഴ്സുകളിലെ സിഒ പിഒ മാപ്പിംഗ് താരതമ്യേന നേരായതും ലളിതവും എളുപ്പവുമാണ് കാരണം സിഒ മിക്കവാറും ഒരു പിഒ പോലെ കാണപ്പെടുന്നു പ്രധാന പ്രോജക്റ്റിന്റെ മാതൃകയിൽ ഒരു മിനി പ്രോജക്റ്റിനെ കരുതാനും കഴിയും പ്രത്യേക സിഒകൾ വികസിപ്പിച്ചിട്ടില്ല എന്നാണ് ഇതിനർത്ഥം മിനി പ്രോജക്റ്റ് പിഒകളിലേക്കും പിഎസ്ഒകളിലേക്കും നേരിട്ട് മാപ്പുചെയ്യുന്നു മിനി പ്രോജക്റ്റ് പ്രധാന പ്രോജക്റ്റ് പോലെ വിലയിരുത്തുന്നു ഒരു രേഖാമൂലമുള്ള റിപ്പോർട്ട് പ്രകടനം ഒരു വിവ എന്നിവയായിരിക്കാം കൂടാതെ പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടം റുബ്രിക്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് മിനി പ്രോജക്റ്റ് റുബ്രിക്സ് ഉപയോഗിച്ച് വിലയിരുത്തുന്നു അതും സാധ്യമാണ് അടുത്ത തവണ ഓഫർ ചെയ്യുമ്പോൾ മിനി പ്രോജക്റ്റ് ഒരു സ്വതന്ത്ര കോഴ്സായി നടപ്പിലാക്കുന്നത് മെച്ചപ്പെടുത്തുന്നതിന് എക്സിറ്റ് സർവേ ഡാറ്റ ഉപയോഗിക്കുന്നു അതിനാൽ ഈ രണ്ട് വഴികളിലൂടെയും മിനി പ്രോജക്റ്റ് പരിഗണിക്കാൻ കഴിയും ഒരു സ്വതന്ത്ര കോഴ്സായി വാഗ്ദാനം ചെയ്യുന്ന ഒരു മിനി പ്രോജക്റ്റിനായുള്ള എക്സിറ്റ് സർവേയിൽ ഒരു സാധാരണ കോഴ്സിന്റെ ഭാഗമായ ഒരു മിനി പ്രോജക്റ്റിന് സമാനമായ ചോദ്യങ്ങളുണ്ട് പക്ഷേ എക്സിറ്റ് സർവേയിൽ ചില അധിക ചോദ്യങ്ങൾ സാധ്യമാണ് "സിഒകൾ മുമ്പേ പങ്കുവെച്ചിട്ടുണ്ടോ " ഞങ്ങൾ സിഒകൾ എഴുതി അളക്കുകയാണെങ്കിൽ "സിഒകൾ വ്യക്തമായിരുന്നു" "കോഴ്സിലെ സാധ്യമായ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിത സിഒകൾ നേടുന്നതിന് സഹായകരമായിരുന്നു" "പ്രശ്ന രൂപീകരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മനസിലാക്കാൻ എന്നെ സഹായിച്ചു" ഒരു പിഒയുമായി ബന്ധപ്പെട്ടത് "ആവശ്യമായ സാഹിത്യ സർവേ എന്നെ സ്വയം പഠനത്തിൽ മികച്ചതാക്കാൻ സഹായിച്ചു" മറ്റൊരു പിഒയുമായി ബന്ധപ്പെട്ടത് പിഒ 12 "ഫാക്കൽറ്റി ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് എന്നിവ വളരെ സഹായകരമായിരുന്നു" ഇതുപോലെ ഒരു മിനി പ്രോജക്റ്റിനായി ഒരു സ്വതന്ത്ര കോഴ്സായി ഓഫർ ചെയ്യുമ്പോൾ എക്സിറ്റ് സർവേയിൽ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചേർക്കാൻ കഴിയും പ്രധാന പ്രോജക്റ്റ് ഇത് സാധാരണയായി ഒരു പ്രധാന പ്രവർത്തനമാണ് മിക്ക സ്ഥാപനങ്ങളിലും ഇത് ഒരു നിർബന്ധിത പ്രവർത്തനമാണ് ഇത് അവസാന സെമസ്റ്ററിലോ അവസാന രണ്ട് സെമസ്റ്ററുകളിലോ നടക്കുന്നു ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്റർ സാധാരണ ഇത് ഒരു ഗ്രൂപ്പ് പ്രവർത്തനമാണ് ഒരു ബാച്ചിന് 2 മുതൽ 4 വരെ വിദ്യാർത്ഥികൾ എന്നാൽ അപൂർവമാണെങ്കിലും ഒരു വലിയ ബാച്ച് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വളരെ അപൂർവവും അസാധാരണവുമായ സാഹചര്യങ്ങളിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ അനുവദിച്ചേക്കാം എന്നാൽ ഇവയെല്ലാം വളരെ അപൂർവവും അസാധാരണവുമാണ് സാധാരണ ഇത് ഒരു ഗ്രൂപ്പ് പ്രവർത്തനമാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിലോ ബാഹ്യ ഗൈഡിന് കീഴിലുള്ള ഒരു ബാഹ്യ ഓർഗനൈസേഷനിലോ നടപ്പിലാക്കാം പക്ഷേ ഒരു ആന്തരിക ഗൈഡ് നിരീക്ഷിച്ച് പല സ്ഥാപനങ്ങളിലും ഇത് അനുവദനീയമാണ് ആനുകാലിക നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള തുടർച്ചയായ ആന്തരിക വിലയിരുത്തൽ നടത്തണം ഇത്തരത്തിലുള്ള നിരീക്ഷണം എത്ര തവണ സംഭവിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കി CIE നിർണ്ണയിക്കപ്പെടുന്നു ടീം സമർപ്പിക്കേണ്ട രേഖാമൂലമുള്ള റിപ്പോർട്ട് ചെയ്ത ജോലിയുടെ പ്രകടനം തുടർന്ന് അന്തിമ അവതരണം വിവ വോസ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് സെമസ്റ്റർ അവസാന വിലയിരുത്തൽ സാധാരണയായി ഇവ SEE യുടെ ഘടകങ്ങളാണ് സാധാരണയായി സ്ഥാപനങ്ങൾക്ക് സുഗമമായ ഓർഗനൈസേഷനും പ്രോജക്റ്റ് പ്രവർത്തനം നടപ്പിലാക്കുന്നതിനും നിരവധി പ്രക്രിയകളുണ്ട് പ്രോജക്റ്റ് ബാച്ചുകൾ രൂപീകരിക്കുന്നതിന് പ്രക്രിയകളുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ധാരാളം നല്ല മാർഗ്ഗങ്ങൾ ലഭ്യമാണ് അവ റോൾ നമ്പറുകളിൽ അതായത് സീരിയൽ നമ്പറുകളിൽ അധിഷ്ഠിതമാകാം അവ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ അവബോധമായി വിദ്യാർത്ഥിതാൽപ്പര്യങ്ങളെ സംയോജിപ്പിച്ച് അടിസ്ഥാനമാക്കിയുള്ളതാകാം ചിലപ്പോൾ ചില നല്ല വിദ്യാർത്ഥികളെ താരതമ്യേന ദുർബലരായ ചില വിദ്യാർത്ഥികളുമായി സംയോജിപ്പിക്കാം നിരവധി രീതികൾ നിലവിലുണ്ട് കൂടാതെ നിരവധി സ്ഥാപനങ്ങൾ ഇവ വ്യത്യസ്ത രീതികളിൽ പരിശീലിക്കുന്നു എന്നാൽ ഇത് ഒരു പ്രധാന പ്രവർത്തനമാണ് പ്രോജക്റ്റ് ബാച്ചുകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രക്രിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർവചിക്കപ്പെടുന്നു പ്രോജക്റ്റുകൾ തിരിച്ചറിയുന്നു വീണ്ടും ഇവിടെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കലുകൾ ഉണ്ട് ചിലപ്പോൾ ലഭ്യമായ പ്രോജക്റ്റുകളുടെ ഒരു പട്ടിക വകുപ്പ് ഇടുന്നു ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ ലഭ്യമാണ് അതിൽ നിന്ന് വിദ്യാർത്ഥികൾ അവരുടെ മുൻഗണനകൾ നൽകുന്നു ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം ആശയങ്ങൾ അവതരിപ്പിക്കാൻ അനുവാദമുണ്ട് ഈ ആശയങ്ങൾ വകുപ്പ് തലത്തിൽ പരിഗണിക്കാം ചിലപ്പോൾ അവ പ്രോജക്റ്റുകൾ തിരിച്ചറിയുന്നതിനുള്ള അടിസ്ഥാനം സൃഷ്ടിക്കും വീണ്ടും വൈവിധ്യമാർന്ന വരണം ലഭ്യമാണ് പ്രോജക്റ്റുകൾ ബാച്ചുകളിലേക്ക് അനുവദിക്കുക പ്രോജക്റ്റ് ഗൈഡുകളെ അനുവദിക്കുക വീണ്ടും ഇത് തികച്ചും സമ്മിശ്രമാണ് വിദ്യാർത്ഥി താത്പര്യങ്ങളും ഗൈഡ് താത്പര്യങ്ങളും ഉണ്ടാകാം അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റുകൾക്ക് ഗൈഡുകൾ അനുവദിക്കുന്ന ഒരു തരം പ്രക്രിയയുണ്ട് സിഐഈ അനുബന്ധ റുബ്രിക്സ് എന്നിവയ്ക്കുള്ള മൂല്യനിർണ്ണയ ഷെഡ്യൂൾ ഇവയും മുൻകൂട്ടി വ്യക്തമാക്കുന്നു നിരീക്ഷണം എത്ര തവണ സംഭവിക്കുന്നു നിരീക്ഷണത്തിൽ കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് ഈ നിരീക്ഷണ മീറ്റിംഗുകളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഡെലിവറികൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികളെ വിലയിരുത്തുന്ന അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ഇവയും പ്രക്രിയയുടെ ഭാഗമാണ് അന്തിമ പരിണാമത്തിന് പൊതുവെ നമുക്ക് റുബ്രിക്സുകൾ ഉണ്ട് അതിനാൽ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് പ്രക്രിയകളുണ്ട് ഈ എല്ലാ വശങ്ങളുമായി ബന്ധപ്പെട്ട എക്സിറ്റ് സർവേയിൽ ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും അതിനാൽ പ്രക്രിയകളെക്കുറിച്ച് ഞങ്ങൾക്ക് പൊതുവായ ചോദ്യങ്ങൾ ചോദിക്കാം "പ്രോജക്റ്റ് ബാച്ചുകൾ രൂപപ്പെടുന്നതിൽ നിങ്ങൾ സംതൃപ്തനാണോ " കാരണം ഇത് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രധാന വശമാണ് "നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു പ്രോജക്റ്റ് തിരിച്ചറിയാനുള്ള മാർഗ്ഗം നിങ്ങൾക്കുണ്ടോ ആ മാർഗ്ഗം നൽകിയിട്ടുണ്ടോ " "ഗൈഡുകൾ അനുവദിക്കുന്നത് നിഷ്പക്ഷമായിരുന്നു" ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രക്രിയ നടപ്പിലാക്കി "ഗൈഡുകൾ അനുവദിക്കുന്നത് തൃപ്തികരമാണ്" ഞങ്ങൾക്ക് ഒരു പ്രക്രിയയുണ്ടെങ്കിൽപ്പോലും അത് തൃപ്തികരമാണോ "ഗൈഡിൽ നിന്നുള്ള സഹായകരമായ പിന്തുണ" പ്രത്യേകിച്ചും പ്രോജക്റ്റ് ഒരു ബാഹ്യ ഓർഗനൈസേഷനിൽ ചെയ്താൽ ആന്തരിക ഗൈഡ് ഏത് തരത്തിലുള്ള പിന്തുണയാണ് നൽകിയത് അതിനാൽ ഞങ്ങൾക്ക് സഹായം ഗൈഡിൽ നിന്നുള്ള പിന്തുണ എന്നിവ വ്യക്തമാക്കാം "റുബ്രിക്സ് മുൻകൂട്ടി പങ്കിട്ടു" "റുബ്രിക്സ് വ്യക്തമായിരുന്നു" "ഗ്രൂപ്പിലെ ഒരു വ്യക്തിയുടെ സംഭാവന വിലയിരുത്തുന്നത് നിഷ്പക്ഷമായിരുന്നു" ഇത് ഒരു ഗ്രൂപ്പ് ജോലിയായതിനാലും പ്രോജക്റ്റിന്റെ മൂല്യനിർണ്ണയ വേളയിലും ഇത് ആവശ്യമാണ് സാധാരണയായി വ്യക്തിയുടെ സംഭാവനയും കണക്കാക്കപ്പെടുന്നു കൂടാതെ ചില മാർക്ക് അനുവദിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തിയുടെ വിലയിരുത്തൽ ഗ്രൂപ്പ് വർക്കിലെ സംഭാവന ഇത് വിദ്യാർത്ഥികളുടെ ധാരണയിൽ നിഷ്പക്ഷമാണോ എന്ന് ഇവയെല്ലാം വിദ്യാർത്ഥികളുടെ ധാരണകൾ മാത്രമാണെന്നത് ശ്രദ്ധിക്കുക കാരണം ഇത് ഒരു സർവേയാണ് തുടർന്ന് വിഭവങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ചോദ്യം നമുക്ക് ചോദിക്കാം "പ്രോജക്റ്റ് ലബോറട്ടറിയിലേക്കുള്ള പ്രവേശനം എളുപ്പവും ഇണക്കമുള്ളതുമായിരുന്നു" മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഒരു പ്രത്യേക സമർപ്പിത പ്രോജക്റ്റ് ലബോറട്ടറി ഉണ്ട് അവയുടെ അഭിഗമ്യത കൂടുതൽ ഇണക്കമുള്ളതാണ് അതായത് നിയന്ത്രണങ്ങൾ പ്രോജക്റ്റ് ലബോറട്ടറിയുടെ സമയം എന്നിവ സാധാരണ ഉത്തരവാദിത്വമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ഇണക്കമുള്ളതാണ് അത്തരമൊരു പ്രോജക്റ്റ് ലബോറട്ടറി ലഭ്യമാണെങ്കിൽ വാസ്തവത്തിൽ ഇത് എൻബിഎക്കും ആവശ്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ പ്രോജക്റ്റുകൾ സ്ഥാപനത്തിനകത്ത് തന്നെ നടപ്പിലാക്കുന്നത് കൂടുതൽ സഹായകരമാകും അതിനാൽ "പ്രോജക്ട് ലബോറട്ടറിയിലേക്കുള്ള അഭിഗമ്യത എളുപ്പവും ഇണക്കമുള്ളതുമായിരുന്നു " "മതിയായ ലബോറട്ടറി വിഭവങ്ങൾ ലഭ്യമാണ്" "ലൈബ്രറി സൌകര്യങ്ങൾ പര്യാപ്തമായിരുന്നു" കാരണം സമീപകാല ആശയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് ജേർണലുകളിലേക്കുള്ള അഭിഗമ്യത വളരെ പ്രധാനമാണ് റഫറൻസുകൾ റഫറൻസ് പുസ്തകങ്ങൾ എന്നിവയിലേക്കുള്ള അഭിഗമ്യത വളരെ പ്രധാനമാണ് ഇടയ്ക്കിടെ അത് ലഭ്യമല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറി വിഭവങ്ങൾ പങ്കിടാൻ മറ്റ് ലൈബ്രറികളോടൊപ്പവും ഈ ലൈബ്രറിക്ക് ഒരു കരാർ ഉണ്ടെങ്കിൽ പിന്നെ അത് സഹായകമാകും അങ്ങനെ ഞങ്ങൾ ചോദിക്കാം "മറ്റു സ്ഥാപനങ്ങളിലെ ലൈബ്രറികളിൽ അഭിഗമ്യത അത്തരം ഒരു സൌകര്യം ഉണ്ടോ അപ്പോൾ സാമ്പത്തിക സഹായം ഒരുപക്ഷേ പരിമിതമാണ് സ്ഥാപനങ്ങൾക്ക് അവരുടേതായ പരിമിതികളുണ്ട് അതിനാൽ ധനസഹായം പരിമിതമായിരിക്കാം പക്ഷേ കുറഞ്ഞത് പരിമിതമായ രീതിയിൽ "സാമ്പത്തിക സഹായം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭ്യമാണോ " പ്രത്യേകിച്ചും മെറ്റീരിയലുകൾ വാങ്ങൽ പ്രത്യേക ഘടകങ്ങൾ ഫാബ്രിക്കേഷൻ ജോലികൾ എന്നിവ ഉൾപ്പെടുന്ന പ്രോജക്ടുകൾ അത്തരം എല്ലാ സാഹചര്യങ്ങളിലും ചെലവുകൾ ഉൾപ്പെടുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം സാമ്പത്തിക സഹായം നൽകുന്നുവെന്നതും ഒരു പ്രധാന പരാമീറ്ററാണ് സാമ്പത്തിക സഹായം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭ്യമാണോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാം പ്രോജക്റ്റുകൾക്ക് നിരവധി പിഒകളെ പൊതുവേ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് പാഠ്യപദ്ധതിയിലെ പതിവ് കോഴ്സുകൾക്ക് പരമ്പരാഗത കോഴ്സുകൾക്ക് എളുപ്പത്തിൽ അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത പിഒകൾ അഭിസംബോധന ചെയ്യാനുള്ള കഴിവുണ്ട് ശരിയായ ആസൂത്രണം ഉപയോഗിച്ച് പ്രോജക്റ്റുകൾക്ക് ഈ എല്ലാ പിഒകളെയും അഭിസംബോധന ചെയ്യാൻ കഴിയും പ്രോജക്റ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളും റുബ്രിക്സ്കുളും ഇവിടെ പ്രധാന പങ്ക് വഹിക്കുന്നു മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ആ പിഒകളെ അഭിസംബോധന ചെയ്യുന്നതിനായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് കൂടാതെ റുബ്രിക്സിന് ആ പിഒകളുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ഇത് ചെയ്താൽ എക്സിറ്റ് സർവേയിൽ ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ ആ പിഒകളുമായി ബന്ധപ്പെട്ടതാകാം അതിനാൽ എക്സിറ്റ് സർവേയിൽ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ അത്തരം ആസൂത്രണത്തെ ആശ്രയിച്ചിരിക്കുന്നു ചില പിഒകളുമായി ബന്ധപ്പെട്ട് മാർഗ്ഗനിർദ്ദേശങ്ങളും തിരുത്തലുകളും നിർദ്ദിഷ്ടമാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ സാധാരണ ചോദ്യങ്ങൾ ഇതുപോലെയാകാം "ഒരു എഞ്ചിനീയറിംഗ് പ്രശ്നരൂപവത്കരണം മനസിലാക്കാൻ പ്രോജക്റ്റ് വർക്ക് എന്നെ സഹായിച്ചു " പ്രശ്നത്തിന്റെ അനൌപചാരിക അല്ലെങ്കിൽ അർദ്ധ ഔപചാരിക വിവരണത്തിൽ നിന്ന് പരിഹരിക്കേണ്ട എഞ്ചിനീയറിംഗ് പ്രശ്നം ഞങ്ങൾ വ്യക്തമാക്കുന്നു അതിനാൽ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാന കഴിവാണ് പ്രശ്ന രൂപീകരണം അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാം "തന്നിരിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട സാഹിത്യ സർവേ നടത്തുന്നതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആത്മവിശ്വാസമുണ്ടോ " സ്വയം പഠനവുമായി ബന്ധപ്പെട്ടത് "ഡാറ്റയുടെ വിശകലനത്തെയും വ്യാഖ്യാനത്തെയും കുറിച്ചുള്ള എന്റെ ഗ്രാഹ്യത്തിന് പ്രോജക്റ്റ് വർക്ക് എന്നെ സഹായിച്ചു " സാധാരണയായി പ്രോജക്റ്റ് വർക്കിന് ചില തുറന്ന സ്വഭാവമുണ്ട് അതിനാൽ ഡാറ്റ ശേഖരിക്കുമ്പോൾ ഡാറ്റയുടെ വിശകലനവും വ്യാഖ്യാനവും ഒരു നിർണായക ഘടകമാണ് ഡാറ്റയുടെ വിശകലനത്തെയും വ്യാഖ്യാനത്തെയും കുറിച്ചുള്ള എന്റെ ഗ്രാഹ്യത്തിന് പ്രോജക്റ്റ് വർക്ക് എന്നെ എത്രത്തോളം സഹായിച്ചു "പ്രോജക്റ്റ് ജോലികൾ ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും അവയുടെ പരിമിതികൾ മനസ്സിലാക്കുന്നതിലും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി " ഞങ്ങൾക്ക് ഇത് ഒരൊറ്റ ചോദ്യമായി ചോദിക്കാം അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങളായി വിഭജിക്കാം "പ്രോജക്റ്റ് വർക്ക് എന്നെ മികച്ച ടീം കളിക്കാരനാക്കാൻ സഹായിച്ചു" ഒരു ടീം വർക്ക് എന്ന നിലയിൽ പ്രോജക്റ്റ് ജോലിയുടെ വളരെ പ്രധാനപ്പെട്ട ഫലം "പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുമ്പോൾ രചനാമോഷണം ഒഴിവാക്കുന്നതിന്റെ പ്രാധാന്യം ഞാൻ നന്നായി മനസ്സിലാക്കി" ധാർമ്മികതയുമായി ബന്ധപ്പെട്ടത് വീണ്ടും പദ്ധതി മാർഗ്ഗനിർദ്ദേശങ്ങൾ 10 15 20 ശതമാനം എന്തുതന്നെയായാലും നിശ്ചിത ശതമാനത്തിനപ്പുറം രചനാമോഷണം സ്വീകരിക്കില്ലെന്ന് വ്യക്തമായി പ്രസ്താവിക്കുകയും രചനാമോഷണനില പരിശോധിക്കുന്നതിന് ഒരു ഉപകരണം ലഭ്യമായിരിക്കുകയും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും വേണം രചനാമോഷണം ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിലാണ് എങ്കിൽ റിപ്പോർട്ട് നിരസിക്കപ്പെടും രചനാമോഷണ വശവുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ ചില ഗുണങ്ങൾ റുബ്രിക്സിൽ ഉൾപ്പെടും "ഉറവിടങ്ങളുടെ ശരിയായ ആട്രിബ്യൂഷന്റെ പ്രാധാന്യം മനസിലാക്കാൻ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നെ സഹായിച്ചു ഇതും ധാർമ്മികതയുടെ ഭാഗമാണ് അതിനാൽ ഞങ്ങൾ ചില ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ എടുക്കുമ്പോൾ ശരിയായ റഫറൻസ് നൽകേണ്ടത് ആവശ്യമാണ് ഉറവിടങ്ങളുടെ ശരിയായ ആട്രിബ്യൂഷനും പ്രധാനമാണ് ഇത് മാർഗ്ഗനിർദ്ദേശങ്ങളിലും പ്രസ്താവിക്കാം അത് അവിടെ റുബ്രിക്സുകളിലും ആകാം "വാക്കേതര ആശയവിനിമയത്തിൽ മികച്ചതാകാൻ അന്തിമ പ്രോജക്റ്റ് അവതരണത്തിനുള്ള തയ്യാറെടുപ്പ് എന്നെ സഹായിച്ചു " ആശയവിനിമയ നൈപുണ്യത്തിന്റെ ഭാഗമായി അതിനാൽ ഇത് വാക്കേതര ആശയവിനിമയത്തിലൂടെ മികച്ചതാകാൻ സഹായിക്കുന്നുണ്ടോ "തന്നിരിക്കുന്ന പ്രോജക്റ്റ് മാനേജുമെന്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ പ്രോജക്റ്റ് നടപ്പിലാക്കിയത്" ടൈം ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ PERT CPM തരത്തിലുള്ള ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ നൽകേണ്ട ചെലവ് കണക്കാക്കൽ നിർദ്ദിഷ്ട ബദൽരൂപകൽപ്പന സജ്ജീകരിക്കേണ്ട നാഴികക്കല്ലുകൾ ചെയ്യേണ്ട ട്രാക്കിംഗ് എന്നിവ പോലുള്ള ചില പ്രോജക്ട് മാനേജുമെന്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ വകുപ്പ് നൽകുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെ ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി പ്രോജക്റ്റ് നടപ്പിലാക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റ് മാനേജുമെൻറ് വശങ്ങളിലും പ്രകാശനം ലഭിക്കും അത് വീണ്ടും മറ്റൊരു പിഒ ആണ് "പ്രോജക്റ്റ് പ്രവർത്തനം സ്വതന്ത്ര പഠനം പിന്തുടരുന്നതിൽ എന്നെ സഹായിച്ചു" പലപ്പോഴും പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട് അതിനായി അവർ ലൈബ്രറി ഇൻറർനെറ്റ് അല്ലെങ്കിൽ ലഭ്യമായ മറ്റേതെങ്കിലും വിഭവങ്ങൾ എന്നിവ പരിശോധിക്കേണ്ടതുണ്ട് സ്വതന്ത്ര പഠനത്തിന് ഇത് എന്നെ എത്രത്തോളം സഹായിച്ചു "ഞങ്ങളുടെ പ്രോജക്റ്റിൽ സുസ്ഥിരതയുടെ വീക്ഷണകോണിൽ നിന്ന് ഞങ്ങൾ നിർദ്ദേശിച്ച സാങ്കേതിക പരിഹാരങ്ങൾ ഞങ്ങൾ ചർച്ചചെയ്യുന്നു " വീണ്ടും മാർഗ്ഗനിർദ്ദേശങ്ങൾ സുസ്ഥിരത പ്രശ്നത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന സാങ്കേതിക പരിഹാരത്തിന്റെ ബന്ധത്തെക്കുറിച്ച് ഒരു വിഭാഗം ഉണ്ടായിരിക്കണമെന്നും വിദ്യാർത്ഥികൾ അത്തരമൊരു പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയും അത് എത്രത്തോളം സുസ്ഥിരതാ പ്രശ്നം മനസിലാക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ട് "തന്നിരിക്കുന്ന സൃഷ്ടിയുടെ ഗുണനിലവാരമുള്ള അവതരണം നടത്തുന്നതിൽ എനിക്ക് ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്" അവതരണത്തെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന റുബ്രിക്സുകൾ വിദ്യാർത്ഥികൾക്ക് അവതരണത്തിന്റെ പ്രധാന വശങ്ങൾ മനസിലാക്കാൻ സഹായിക്കും അതിനാൽ ആശയവിനിമയ വൈദഗ്ധ്യവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന സൃഷ്ടിയുടെ ഗുണനിലവാരമുള്ള അവതരണം നടത്താമെന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് "പ്രോജക്റ്റ് വർക്ക് സുരക്ഷിതവും സമൂഹത്തിന് സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ സാങ്കേതിക പരിഹാരങ്ങൾ നൽകുന്നതിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കി തന്നു" വിദ്യാർത്ഥികൾക്ക് ഈ വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം ആവശ്യമാണെങ്കിൽ എക്സിറ്റ് സർവേയിൽ ഞങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ കഴിയും തീർച്ചയായും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ റുബ്രിക്സ് ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ശരിക്കും ഈ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി അവരുടെ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് സഹായിച്ചിട്ടില്ലെങ്കിൽ എക്സിറ്റ് സർവേയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അന്യായമാണ് പക്ഷേ ഈ വശങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നുവെന്ന് അനുമാനിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് എത്രത്തോളം പ്രയോജനം ലഭിച്ചുവെന്ന് നമുക്ക് നിർണ്ണയിക്കാനാകും നിർദ്ദിഷ്ട പിഒകളെക്കുറിച്ച് എക്സിറ്റ് സർവേയിൽ ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും ഈ പിഒകൾ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് ഇത് ഞങ്ങളെ സഹായിക്കും കാരണം കോഴ്സുകളിൽ നിന്ന് മാത്രം അത്തരം പിഒകൾ നേടുന്നത് വളരെ പ്രയാസമാണ് ഇത്തരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉചിതമായ റുബ്രിക്സ്രുകൾ മുമ്പേ പങ്കിടുകയും എക്സിറ്റ് സർവേയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്താൽ അത്തരം പിഒകളെ മികച്ച രീതിയിൽ നേടുന്നതിന് ഞങ്ങൾക്ക് തീർച്ചയായും ആസൂത്രണം ചെയ്യാൻ കഴിയും അഭ്യാസം മിനി പ്രോജക്റ്റിനായി ഒരു പ്രോജക്റ്റ് എക്സിറ്റ് സർവേ രൂപകൽപ്പന ചെയ്യുക നിങ്ങൾക്ക് ഒരു സാധാരണ കോഴ്സിന്റെ ഭാഗമായ ഒരു മിനി പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര കോഴ്സായി വാഗ്ദാനം ചെയ്യുന്ന ഒരു മിനി പ്രോജക്റ്റ് ആയി തിരഞ്ഞെടുക്കാം അവസാന വർഷ പ്രോജക്റ്റിനായി ഒരു പ്രോജക്റ്റ് സർവേ ഫോം രൂപകൽപ്പന ചെയ്യുക അഭ്യാസത്തിന്റെ ഫലങ്ങൾ tale iisctagmail com ൽ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ എല്ലാ മൂല്യനിർണ്ണയങ്ങളിൽ നിന്നും ഡാറ്റ സംഗ്രഹിക്കുന്ന പ്രക്രിയയും സ്വയം സംഗ്രഹ ഫീഡ്ബാക്ക് തയ്യാറാക്കുന്ന പ്രക്രിയയും ഞങ്ങൾ മനസ്സിലാക്കും